ലെക്ച്ചർ 46 ഉം 47 ഉം സെക്ഷൻസ് ആൻഡ് സെക്ഷനൽ വ്യൂസ് തുടരുന്നു ഹലോ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന നമ്മളുടെ എൻപിടിഎൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സിലേക്ക് സ്വാഗതം മുമ്പത്തെ ക്ലാസുകളിൽസെക്ഷൻസ് നേ കുറിച്ച് നമ്മൾ പഠിച്ചു ഈ ക്ലാസ്സിൽ സെക്ഷനൽ വ്യുവിനേകുറിച്ച് നമ്മൾ കൂടുതലറിയും അതിനാൽ ഈ സെക്ഷനൽ വ്യുവിൽ നമ്മൾക്ക് വ്യത്യസ്ത വിഷയങ്ങളുണ്ട് ഫുൾ സെക്ഷൻ എങ്ങനെ വരയ്ക്കാം ഹാഫ് സെക്ഷനൽ വ്യു ആണെങ്കിൽ അത് എങ്ങനെ കാണപ്പെടുന്നു ഓഫ്സെറ്റ് സെക്ഷൻ എങ്ങനെ വരയ്ക്കാം റിവോൾവ് സെക്ഷൻസ് എങ്ങനെ പ്രതിനിധീകരിക്കാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇവയാണ് അടുത്ത ക്ലാസുകളിൽ റിബ് വെബ് സെക്ഷൻസിനേകുറിച്ചും അലൈന്ഡ് സെക്ഷൻസിനേകുറിച്ചും കൂടുതലറിയും ഒരു ബ്രോക്കൻ ഔട്ട് സെക്ഷൻസ് ആണെങ്കിൽ അത് എങ്ങനെയാണ് കാണപ്പെടുന്നത് ഏതെങ്കിലും ഭാഗം നീക്കംചെയ്താൽ ഒരു സാധാരണ മെഷീൻ ഘടകം കട്ട് സെക്ഷണൽ വ്യൂവായി പ്രതിനിധീകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് എങ്ങനെ പ്രതിനിധീകരിക്കാമെന്നും സെക്ഷനൽ വ്യു കാഴ്ചകളിൽ നമ്മൾ പറയുന്ന വിഷയങ്ങൾ ഇവയാണ് അതിനാൽ ഫുൾ സെക്ഷനൽ വ്യു വും ഹാഫ് സെക്ഷനൽ വ്യു കാഴ്ചകളും ആരംഭിക്കാം ആദ്യ വിഷയം ഒരു പൂർണ്ണ സെക്ഷൻ ആണ് ഉദാഹരണത്തിന് ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റ് ഒരുപക്ഷേ ക്യാമറ ലെൻസിന്റെ ഭാഗമായി നമുക്ക് പരിഗണിക്കാം അതിൽ ഈ ക്യാമറ ഒബ്ജക്റ്റിലൂടെ കടന്നുപോകുന്ന ഒരു മിഡ്പ്ലെയിനിൽ ഇത് കൃത്യമായി മുറിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഒപ്പം ഇടതുവശത്തുള്ള ഭാഗം നിലനിർത്താനും വലതുവശത്തുള്ള ഭാഗം നീക്കം ചെയ്യാനും നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ കട്ട് സെക്ഷണൽ പ്ലെയിൻ വഴി നമ്മൾ ഇത് രണ്ട് തുല്യ ഭാഗങ്ങളായി വിഭജിക്കുകയും ഇടത് ഭാഗം സൂക്ഷിക്കുകയും അത് എങ്ങനെ കാണപ്പെടുന്നുവെന്ന് ദൃശ്യവൽക്കരിക്കാനും വലതുവശത്തെ ഭാഗം നീക്കംചെയ്യാനും ശ്രമിക്കുക ആ ക്യാമറ ഒബ്ജക്റ്റിന്റെ ആന്തരീക വിശദാംശങ്ങൾ അറിയുന്നതിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പുറത്ത് നിന്ന് ഐസോമെട്രിക് വ്യൂവിൽ നിന്ന് ഉപരിതലത്തിന്റെ ചുറ്റളവ് അളവുകൾ എന്തൊക്കെയാണ് തുടങ്ങിയവ കാണും ഈ സാങ്കൽപ്പിക കട്ട് പ്ലെയിൻ എടുത്തില്ലെങ്കിൽ അതിനുള്ളിൽ ഏത് തരത്തിലുള്ള ഘടകങ്ങളുണ്ട് നമ്മൾക്ക് ആ വിശദാംശങ്ങൾ കാണാൻ കഴിയില്ല അതിനായി ഈ സെക്ഷനൽ വ്യു കാഴ്ചകൾ നമ്മൾ നോക്കുന്നു ഇവിടെ മുഴുവൻ വസ്തുവും നമ്മൾ അതിനെ രണ്ട് തുല്യ ഭാഗങ്ങളായി മുറിച്ച് നീക്കംചെയ്യുന്നു അത്തരം സെക്ഷൻസ് ഫുൾ സെക്ഷനൽ വ്യു കാഴ്ചകൾ എന്ന് വിളിക്കാൻ ഉള്ള കാരണം ഇതാണ് അതിനാൽ വലതുവശത്തെ ഭാഗം നീക്കം ചെയ്ത ശേഷം ശേഷിക്കുന്ന ഭാഗം ഇതാണ് ഇതുപോലുള്ള ആന്തരീക വിശദാംശങ്ങൾ ഇവിടെ കാണാം ഒരിക്കൽ ഈ സ്ലൈസ് കടന്നുപോകുമ്പോൾ നമ്മൾ ഇവിടെ മെറ്റീരിയൽ കാണുന്നു അത് ഇതാണ് നമ്മൾ ആ ദിശയിൽ ഒരു സ്ലൈസ് എടുക്കുന്നതിനാൽ നമ്മൾക്ക് ആ ആകൃതിയുണ്ട് സമാനമായി പശ്ചാത്തലത്തിൽ ഈ ഐസോമെട്രിക് കാഴ്ചയിൽ നിന്ന് നേരിട്ട് കാണാനാകാത്തവിധം കടന്നുപോകുന്ന ഒരു ആകൃതി ഉണ്ടായിരിക്കാം പക്ഷേ ഈ പൂർണ്ണമായ വ്യു ഉള്ളപ്പോൾ പശ്ചാത്തലത്തിൽ എന്താണുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ച ത്രിമാന വസ്തുവാണ് ഇത് അതിനാൽ നിങ്ങൾ അത് സ്ലൈസ് ചെയ്താൽ ആ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ചില മെറ്റീരിയലുകൾ ഉണ്ടായിരിക്കും പ്ലെയിൻ കടന്നുപോകുന്നിടത്തെല്ലാം ഹാചിഡ് ലൈനുകളിലൂടെ നമ്മൾ അത് കാണിക്കും അതിനാൽ ഈ വസ്തു ഒരു പ്ലാനാർ വ്യൂവായി പ്രതിനിധീകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനർത്ഥം അത് എങ്ങനെ കാണപ്പെടുന്നുവെന്ന് ആ ദിശയിൽ നിന്ന് ദൃശ്യവൽക്കരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ പ്ലെയിൻ ആ ഭാഗം മുറിക്കുന്നതെന്തും നമ്മൾ അത് കട്ട് സെക്ഷണൽ വ്യൂ കാഴ്ചയിലൂടെ കാണിക്കും ആ ഭാഗം മുറിച്ചില്ലെങ്കിൽ ഹാചിഡ് ലൈൻകളിലൂടെ നമ്മൾ അത് കാണിക്കില്ല ഹാചിഡ് ലൈനുകളാണിവ അതിനാൽ ഈ ഭാഗം സ്ലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അത് നിർമ്മിക്കാൻ പോകുന്നു ഈ ഭാഗം ഈ പ്ലെയിൻ മുറിച്ചുമാറ്റില്ല അതിനാൽ ഈ ഭാഗം ഒരു ഹാച്ച് ഉപയോഗിച്ച് നമ്മൾ കാണിക്കരുത് അത് ആ ഭാഗമാണെന്നും ഈ മെറ്റീരിയൽ സ്ലൈസ് ആണെന്നും അതിനാൽ ആ മെറ്റീരിയൽ അതാണ് നമുക്ക് മറ്റെന്തെങ്കിലും നിറം ഉപയോഗിക്കാം അതിനാൽ ഈ ഭാഗം നമ്മൾ കാണുന്നതെന്തും ഇതാണ് കാര്യങ്ങൾ അതുപോലെ അടിയിലും നമുക്ക് അത്തരത്തിലുള്ള മെറ്റീരിയൽ ഉണ്ട് അതിനാൽ നമ്മൾക്ക് അത്തരം മെറ്റീരിയലും ഈ ഭാഗവും ഉണ്ട് അതുപോലെ ഈ ഭാഗം പ്ലെയിൻ സ്ലൈസ് ചെയ്തതല്ല ഈ ഭാഗം പ്ലെയിൻ സ്ലൈസ് ചെയ്തതല്ല അതിനാൽ നമ്മൾ ഇത് ഒരു ഹാച്ച് ഉപയോഗിച്ചും കാണിക്കുന്നില്ല ആ ഭാഗം എവിടെയെങ്കിലും നീക്കംചെയ്താൽ ഹാചിഡ് ലൈൻകളിലൂടെ നമ്മൾ അത് കാണിക്കും സ്ലൈസിംഗ് സമയത്ത് ഇത് ആണെങ്കിൽ ആ മെറ്റീരിയൽ നീക്കംചെയ്യാൻ നമ്മൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഹാചിഡ് ലൈൻകളിലൂടെ നമ്മൾ അത് കാണിക്കില്ല കാരണം ഇത് അസമമായ ഒബ്ജക്റ്റാണ് നമ്മൾ എല്ലായ്പ്പോഴും സെന്റർ ലൈൻ വിവരങ്ങളാൽ ഇത് കാണിക്കുന്നു രണ്ടാമത്തെ ഏറ്റവും വലിയ കാര്യം സെക്ഷൻ എ എ യുടെ താഴെയുള്ള ഏതു ഭാഗവും നമ്മൾ കാണിക്കും എന്നതാണ് അതിനാൽ ഒരു സ്ലൈസ്ന് നമുക്ക് ആരോ എ എ ഉപയോഗിക്കാം ആരോ ദിശ പ്രതിനിധീകരിക്കുന്നത് നമ്മൾ ഈ ഭാഗം നിലനിർത്താൻ പോകുന്നുവെന്നും നമ്മൾ ഈ ഭാഗം നീക്കംചെയ്യാൻ പോകുന്നുവെന്നും ആണ് അതിനാൽ ആരോയുടെ ദിശ നിലനിർത്തുന്ന ഭാഗത്തെ പ്രതിനിധീകരിക്കുന്നു ഞാൻ ടോപ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ലൈൻ പോലെ ഒരു കട്ട് പ്ലെയിൻ ഉണ്ടെന്ന് തോന്നുന്നു ഈ രീതിയിൽ ആരോ ദിശ ഉണ്ടാകും അതിനാൽ സാധാരണയായി ഈ കട്ട് സെക്ഷനൽ വ്യു കാഴ്ചയ്ക്കായി നമ്മൾ ഏത് സെക്ഷനെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ആ ലേബൽ പരാമർശിക്കേണ്ടതുണ്ട് നിങ്ങൾ മെറ്റീരിയൽ നീക്കംചെയ്യുമ്പോഴെല്ലാം അനുയോജ്യമായ ലൈനുകളാൽ പ്രതിനിധീകരിക്കേണ്ടതുണ്ട് ഇത് ഇരുമ്പ് തരത്തിലുള്ള മെറ്റീരിയലാണെങ്കിൽ നമ്മൾ ഒരുതരം ലൈനുകൾ ഉപയോഗിക്കും അത് പിച്ചള വെങ്കലം ചെമ്പ് എന്നിവ ആണെങ്കിൽ നമ്മൾ വേറെ ലൈൻ ഉപയോഗിക്കും അത് മരം ആണെങ്കിൽ വ്യത്യസ്ത തരം ലൈനുകൾ ആണ് അതിനാൽ ആ ലൈനെ അടിസ്ഥാനമാക്കി നമ്മൾ ഏത് തരം മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നതെന്ന് മനസിലാക്കാൻ കഴിയും സാധാരണഗതിയിൽ ഈ നിർമ്മാണ പ്രക്രിയയിൽ നിങ്ങൾ വ്യവസായങ്ങളിൽ ഉൽപാദന നിരയിലായിരിക്കുമ്പോൾ ഡ്രോയിംഗ് ഷീറ്റുകൾ വിതരണം ചെയ്യും കൂടാതെ നമ്മൾ ഏതുതരം ഭാഗമാണ് നിർമ്മിക്കുന്നതെന്നും ആന്തരികമായി ഏത് തരത്തിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുവെന്നും മനസിലാക്കാൻ നമ്മൾക്കാകും ചിത്രപരമായി പ്രതിനിധീകരിക്കുന്നതിന് സ്കീമാറ്റിക് സാധാരണയായി നമ്മൾ ടോപ് വ്യൂവിൽ പൂർണ്ണമായ ഒബ്ജക്റ്റ് കാണിക്കുന്നു കൂടാതെ ഒരു സെക്ഷൻ പ്ലെയിൻ ഉണ്ട് നമ്മൾ മുകളിൽ നിന്നും നോക്കുകയാണെങ്കിൽ അത് എങ്ങനെ കാണപ്പെടുന്നുവെന്നത് നമ്മൾ നിലനിർത്താൻ പോകുന്നതെന്തും ആരോയിൽ കാണിക്കുന്നു കൂടാതെ കട്ട് പ്ലെയിൻ വലിയ ഡാഷും അതിനുശേഷം രണ്ട് ചെറിയ ഡാഷുകളും മറ്റും അങ്ങനെ ആണ് ഒരു കട്ട് പ്ലെയിൻ കാണിക്കുന്നത് കൂടാതെ ആന്തരികമായി നമുക്ക് ഈ മറഞ്ഞിരിക്കുന്ന ലൈൻകളുണ്ട് അത് ഡാഷ് ചെയ്ത ലൈനുകളിലൂടെ നമ്മൾ കാണിക്കും അതിനായി നമ്മൾ ഈ ഭാഗം നിലനിർത്തുന്നു ആ ഭാഗം നീക്കംചെയ്യും ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ ആണ് നമ്മൾ കാണിക്കുന്നത് മുഴുവൻ ഒബ്ജക്റ്റിലും നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫുൾ സെക്ഷനൽ വ്യു എന്ന് വിളിക്കുന്നു പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് സെക്ഷണൽ ഏരിയയെ ദൃശ്യമായ ഒരു ബാഹ്യരേഖയാൽ കാണിക്കുന്നു കട്ട് സെക്ഷൻ തുറന്നപ്പോൾ ടോപ് വ്യുവിലും മറ്റ് കാര്യങ്ങളിലും നമ്മൾ കാണുമ്പോൾ നമ്മൾ ഡാഷ് ചെയ്ത ലൈൻകളാൽ പ്രതിനിധീകരിക്കുന്നു കട്ട് ചെയ്തതിന് ശേഷം അത് ഒരു ഡാഷ് ലൈനായിരിക്കരുത് കാരണം പ്ലെയിൻ അതിലൂടെ കടന്നുപോകുന്നു അതിനാൽ ഈ ലൈൻ തുടർച്ചയായ ഒരു ലൈൻ ആയിരിക്കണം ഡാഷ് ചെയ്ത ലൈൻകളിലൂടെ നമ്മൾ അതിനെ പ്രതിനിധീകരിക്കരുത് ഈ മുഴുവൻ കാര്യവും തുടർച്ചയായ ഒന്നായിരിക്കേണ്ടതാണ് അതേസമയം കട്ട് സെക്ഷൻ നീക്കംചെയ്യാതെ ടോപ് വ്യൂവിൽ ഇവ ഡാഷ് ചെയ്ത ലൈൻകളാണ് രണ്ടാമത്തെ പോയിന്റ് കട്ടിംഗ് പ്ലെയിനിൻെറ പിന്നിൽ ഉള്ള അരികുകൾ കാണിക്കണം അതിനാൽ ദൃശ്യമാകുന്ന അരികുകൾ എന്തുതന്നെയായാലും ആ കട്ടിംഗ് പ്ലെയിൻ വ്യക്തമായി കാണിക്കേണ്ടവ നമുക്ക് കാണാം എന്തെങ്കിലും മറഞ്ഞിരിക്കുന്ന സവിശേഷതകൾ ഉണ്ടെങ്കിൽ അത് സെക്ഷൻ കാഴ്ചയുടെ എല്ലാ മേഖലകളിലും ഒഴിവാക്കണം ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ ഒരു സ്ലൈസ് ഉണ്ടാക്കുന്നു പക്ഷേ ആന്തരിക ഭാഗങ്ങൾ മറഞ്ഞിരിക്കാം സെക്ഷൻ്റെ പിന്നിൽ എവിടെയെങ്കിലും ആന്തരിക ഭാഗങ്ങൾ ഉണ്ടാകാം പക്ഷേ നമ്മൾ കട്ട് സെക്ഷണൽ വ്യൂ പ്രതിനിധീകരിക്കുമ്പോൾ ഈ കട്ട് സെക്ഷണലിൽ മറഞ്ഞിരിക്കുന്ന ഭാഗം നമ്മൾ കാണിക്കരുത് മറഞ്ഞിരിക്കുന്നതുപോലെ അത് ആ വസ്തുവിന്റെ പുറകുവശത്താണെങ്കിലും അത് പ്രതിനിധീകരിക്കാൻ പാടില്ല അസാധാരണമായ ചില സന്ദർഭങ്ങളും ഉണ്ട് ഉദാഹരണത്തിന് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ത്രെഡുകളും ബ്രോകെൺ ഔട്ട് സെക്ഷനുകളും ആ ബ്രോകെൺ ഔട്ട് സെക്ഷനുകളിൽ ഡാഷ് ചെയ്ത ലൈനുകൾ കാണിക്കാൻ കഴിയും പക്ഷേ മിക്ക കേസുകളിലും കട്ട് സെക്ഷൻ എടുത്തതിനുശേഷം നമ്മൾ കാണിക്കാൻ പാടില്ലാത്ത ഒരു മറഞ്ഞിരിക്കുന്ന കാര്യമുണ്ടെങ്കിൽ ഇതാണ് സ്റ്റാൻഡേർഡ് റെപ്രസെൻ്റെഷൻ ഇപ്പോൾ ലൈനുകളുടെ തരത്തെക്കുറിച്ച് മെറ്റീരിയലുകളെ അടിസ്ഥാനമാക്കി നമ്മൾ കാണിക്കണം അതിനാൽ നമ്മൾക്ക് ഒരു ഡേറ്റാ ബുക്ക് ഉണ്ടായിരിക്കും അത് ഒരു ഇരുമ്പ് മെറ്റീരിയലാണോ എന്ന് നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് ഇത് ഒരു കാസ്റ്റ് ഇരുമ്പ് അല്ലെങ്കിൽ എല്ലാ വസ്തുക്കളുടെയും പൊതുവായ ഉപയോഗമാണെങ്കിൽ ചരിഞ്ഞ 45 ഡിഗ്രി ലൈനുകൾ ഒരു ഹാച്ച് ആയി നമ്മൾ കാണിക്കുന്നു ഇവയാണ് നമ്മൾ പ്രതിനിധീകരിക്കേണ്ട സമാന്തര ലൈനുകൾ അതിനാൽ നിങ്ങളുടെ മിനി ഡ്രാഫ്റ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ സമാന്തര ലൈനുകൾ വരയ്ക്കാം ഇത് ഉരുക്ക് ആണെങ്കിൽ ഇവ സമാന്തര ലൈനുകളല്ല രണ്ട് സമാന്തര ലൈനുകളാണ് ഒരുമിച്ച് നമുക്ക് കാണിക്കേണ്ടത് അതിനാൽ അത്തരം സൂചിപ്പിക്കൽ ഉരുക്കിനെ പ്രതിനിധീകരിക്കുന്നു ഇത് പിച്ചള വെങ്കലം അല്ലെങ്കിൽ ചെമ്പ് മെറ്റീരിയൽ പോലെയാണെങ്കിൽ ഇത്തരത്തിലുള്ള സോഫ്റ്റ് മെറ്റീരിയലുകൾ നമ്മൾ ഇത് ഒരു ഹാചിഡ് വരയിലൂടെയും ഡാഷ് ചെയ്ത വരയിലൂടെയും വീണ്ടും തുടർച്ചയായ വരയിലൂടെയും കാണിക്കുന്നു നമ്മൾ മെറ്റീരിയലുകളെ പ്രതിനിധീകരിക്കുന്ന രീതി ഇതാണ് സമമിതി വസ്തുവിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നോക്കാം അതിനാൽ ഇവിടെ നമുക്ക് അത്തരം വൃത്താകൃതിയിലുള്ള സമമിതി വസ്തു ഉണ്ട് ഇത് ആ പ്ലെയിനിനൊപ്പം സ്ലൈസ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനർത്ഥം നിങ്ങൾ ആ ഒബ്ജക്റ്റിന്റെ ഒരു സ്ലൈസ് എടുക്കാൻ പോകുന്നു കമ്പ്യൂട്ടറിന് ലംബമായി അതിനാൽ ഞാൻ ഈ പ്ലെയിനിനെ പ്രതിനിധീകരിക്കാൻ പോകുകയാണെങ്കിൽ ആ വഴിയിലൂടെ പോയി ആരോ ദിശ നിലനിർത്തുക അതിനർത്ഥം ഈ ഭാഗം നിലനിർത്തുക ഈ ഭാഗം നീക്കംചെയ്യുക ഈ ഭാഗം പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത് ഇവിടെ കാണിക്കുന്നു ഇവിടെ നിലനിർത്താൻ പോകുന്നതെല്ലം ഈ ഒബ്ജക്റ്റിന്റെ ആന്തരിക ഘടന നിങ്ങൾക്ക് കാണാൻ കഴിയും അതിന് ഡ്രിൽ ചെയ്ത ഒരു ഹോൾ ഉണ്ട് സമാന്തരമായി രണ്ട് ലൈനുകൾ വേർതിരിച്ചതിനാൽ മെറ്റീരിയൽ ഈ രീതിയിൽ നിറക്കുന്നു അതിനാൽ ഇത് ഒരു ഉരുക്ക് വസ്തുവാണ് നമുക്ക് ഒരു ഉദാഹരണം കൂടി നോക്കാം ഇവിടെ നമുക്ക് ഒരു ഒബ്ജക്റ്റ് ഉണ്ട് കട്ട് പ്ലെയിൻ സെക്ഷൻ നമുക്ക് എ എ എന്ന് വിളിക്കാം ഈ ഭാഗം നിലനിർത്തുക ഈ ഭാഗം നീക്കംചെയ്യുക Refer Slide Time 1446 എനിക്ക് ആ മെറ്റീരിയലിനെ പ്രതിനിധീകരിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ആ സെക്ഷനൽ വ്യു കാഴ്ച കാണിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള മറഞ്ഞിരിക്കുന്ന ലൈനുകളിലൂടെ ഞാൻ അത് കാണിക്കരുത് ഇത് തെറ്റാണ് രണ്ടാമത്തെ കാര്യം കട്ട് പ്ലെയിനിലൂടെ നിങ്ങൾ മെറ്റീരിയൽ നീക്കംചെയ്യുമ്പോൾ ഹാചിഡ് ലൈനുകൾ ഉണ്ടായിരിക്കണം ഹാചിഡ് ലൈൻകളും കാണുന്നില്ല അതിനാൽ ഇത് തെറ്റായ രീതിയാണ് ശരിയായ സൂചിപ്പിക്കൽ അത്തരം കാര്യങ്ങളും തുടർച്ചയായ ലൈനുകളുമാണ് ഇപ്പോൾ ഹാഫ് സെക്ഷനൽ വ്യു കാഴ്ചകൾ നോക്കാം അതിനാൽ ഒരു പകുതി ഭാഗം ഒരു വസ്തുവിന്റെ പകുതി ഭാഗത്തെ തുറന്നുകാട്ടുന്നു മറ്റേ പകുതിയുടെ പുറംഭാഗം നിലനിർത്തുന്നു കൂടാതെ ഈ പകുതി സെക്ഷൻ പ്രധാനമായും സമമിതി വസ്തുക്കൾക്കായി ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ഈ സമമിതി ആവശ്യമില്ലാത്ത ഫുൾ സെക്ഷനൽ വ്യു കാഴ്ച പക്ഷേ ഹാഫ് സെക്ഷനൽ വ്യു കാഴ്ചകളെ പ്രതിനിധീകരിക്കുന്നത് പ്രയോജനകരമാണ് കാരണം ഈ ഹാചിഡ് ലൈനുകൾ വെച്ച് ഈ മുഴുവൻ വസ്തുവും കാണിക്കേണ്ടതില്ല കാരണം അവയ്ക്ക് ഭ്രമണപരമായി ഒരു സമമിതി ഉണ്ട് ആ ഭാഗത്തിന്റെ നാലിലൊന്ന് നമ്മൾ നീക്കംചെയ്യുകയും ബാക്കി ഭാഗം പകുതി സെക്ഷനായി കാണിക്കുകയും ചെയ്യും നമുക്ക് അത് നോക്കാം ഉദാഹരണത്തിന് നമ്മൾക്ക് ഈ ഒബ്ജക്റ്റ് ഉണ്ട് ഇതൊരു വൃത്താകൃതിയിലുള്ള സമമിതിയാണ് ഇപ്പോൾ എനിക്ക് പ്രതിനിധീകരിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ഭാഗമെല്ലാം ഹാച്ച് ചെയ്യേണ്ടതില്ല ഈ ഭാഗമെല്ലാം ക്യാമറ ലെൻസാണ് വാസ്തവത്തിൽ ഒരേ ക്യാമറയ്ക്കായി ഈ നാലിലൊന്ന് ഭാഗത്തെ ഹാചിഡ് ലൈൻകളായി മാത്രമേ എനിക്ക് പ്രതിനിധീകരിക്കാൻ കഴിയൂ അങ്ങനെ ഉദ്ദേശ്യവും നിറവേറ്റുന്നു അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുകയാണെങ്കിൽ അതിനെ നമ്മൾ ഹാഫ് സെക്ഷൻ എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് നമുക്ക് മറ്റൊരു ഒബ്ജക്റ്റ് തിരഞ്ഞെടുക്കാം അതിനാൽ ഈ ഒബ്ജക്റ്റിനായി ഈ ദിശയിൽ നമുക്ക് സമമിതി ഉണ്ട് അതിനാൽ ഇപ്പോൾ എനിക്ക് ഈ ഭാഗം നീക്കംചെയ്യും ഈ ഭാഗം നീക്കംചെയ്യാനും ഈ ഭാഗം നിലനിർത്താനും കഴിയും ഇത് എങ്ങനെ കാണപ്പെടുന്നുവെന്ന് ദൃശ്യവൽക്കരിക്കാൻ ശ്രമിക്കുക അതിനാൽ ഇത് കട്ട് പ്ലെയിൻ ആണെങ്കിൽ ഈ ഭാഗം നിലനിർത്തുക ഇതാണ് കട്ട് പ്ലെയിൻ ആ ഭാഗം നിലനിർത്തുക അതിനാൽ എന്റെ പ്ലെയിൻ ആ വഴിക്ക് പോകുന്നു ഒരു എൽ ആംഗിൾ പോലെ എൽ ആംഗിൾ പ്ലെയിൻ ഒരു സ്ലൈസ് ഉണ്ടാക്കി ഈ ഭാഗം നീക്കംചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് എങ്ങനെ കാണപ്പെടുന്നുവോ അതുപോലെ നിലനിർത്തുക അത്തരം ഉദ്ദേശ്യത്തിനായി നമ്മൾ ഹാഫ് സെക്ഷൻ ഉപയോഗിക്കുന്നു അതിനാൽ ഞാൻ ആ ഭാഗം ദൃശ്യപരമായി നീക്കംചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ദൃശ്യമാകുന്ന മെറ്റീരിയൽ ഉണ്ട് നമ്മൾ ഈ ഭാഗം നീക്കംചെയ്തില്ല അതിനാൽ നമ്മൾ ഇത് ഹാച്ച് ഉപയോഗിച്ച് കാണിക്കുന്നില്ല വീണ്ടും ഈ ഭാഗം നീക്കംചെയ്യുന്നു അതിനാൽ ഹാചിഡ് ലൈനുകളിലൂടെ നമ്മൾ ഇത് കാണിക്കുന്നു അതുപോലെ ഈ ഭാഗം നമ്മൾ നീക്കംചെയ്തു അതിനാൽ ഹാചിഡ് ലൈനുകളിലൂടെ നമ്മൾ ഇത് കാണിക്കുന്നു അതിനാൽ നമ്മൾ ടോപ് വ്യൂ കാഴ്ചയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇത് എങ്ങനെയാണ് കാണപ്പെടുന്നത് ഈ വൃത്താകൃതിയിലുള്ള ദ്വാരങ്ങളും മറ്റും നമ്മൾ നീക്കം ചെയ്യേണ്ട ഭാഗം നിലനിർത്തുന്നു അതിനാൽ ഈ പ്ലെയിൻ വിവരം നമ്മൾക്ക് ഉള്ളതിന്റെ ഒരു കാരണമാണിത് മാത്രമല്ല ഈ ദിശയിലും ഇത് നീക്കംചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇത് പോകുന്നു ഇത് നിലനിർത്തുക നീക്കംചെയ്യുക ഹാഫ് സെക്ഷനൽ വ്യു കാഴ്ചകളിൽ അത് ഒരു ഫുൾ സെക്ഷൻ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ പോകുന്നു നമ്മൾക്ക് അത് ആവശ്യമില്ല അതിനാൽ ഈ ഭാഗം നമുക്ക് ലഭിക്കാൻ പോകുന്നതെന്തും വസ്തുവിന്റെ കൂടുതൽ വിവരങ്ങളെ പ്രതിനിധീകരിക്കുന്നു കൂടുതൽ കാര്യങ്ങൾ എന്നുവെച്ചാൽ ആ ദ്വാരം കാണാവുന്ന ഒരു സ്ഥാനത്ത് നമ്മൾ ഉണ്ടാകും ആ ദ്വാരം ഇല്ല ഈ ഭാഗത്തിന് സമാനമായ മെറ്റീരിയൽ ഉണ്ട് അതിനാൽ ഈ ഹാചിങ് കാണിക്കേണ്ട ആവശ്യമില്ല അതിനാൽ ഞാൻ ഈ വസ്തുവിനെ ദൃശ്യവൽക്കരിക്കുകയാണെങ്കിൽ ഹാചിഡ് ഭാഗം ഉള്ള ഈ ഭാഗത്ത് നമുക്ക് ഹാചിഡ് ലൈന്കളുണ്ട് കൂടാതെ ഇത് ദ്വാരമായതിനാൽ നമുക്ക് അവിടെ ദ്വാരങ്ങൾ ഉണ്ട് അതിലൂടെ കടന്നുപോകുന്ന ഒരു ആക്സിസും ഉണ്ട് കാരണം ഇത് ഒരു ഹാഫ് സെക്ഷനൽ വ്യു ആണ് ഈ ഒബ്ജക്റ്റ് നമ്മൾ മുറിക്കുന്നതെന്തും ശേഷിക്കുന്ന കട്ട് സെക്ഷനെ മാപ്പ് ചെയ്യുന്നു അതിനാൽ നിങ്ങളുടെ കട്ട് സെക്ഷൻ നിങ്ങൾക്ക് അവിടെ നിന്ന് മാത്രം കാണാനാകുന്ന അവസ്ഥയിലായിരിക്കും അതിനാൽ ഇതും ഇതും തമ്മിൽ ഒരു വിടവ് ഉണ്ട് അതിനാൽ ആ കട്ട് സെക്ഷൻ എന്തൊക്കെയാണെങ്കിലും നമുക്ക് അവിടെയും ഈ വെളുത്ത ശൂന്യമായ ഇടവും കാണാൻ കഴിയും ആ വെളുത്ത ശൂന്യമായ ഇടം അതാണ് മെറ്റീരിയൽ ഇവിടെ നിന്ന് മാത്രമേ നീക്കംചെയ്യൂ മധ്യരേഖയിൽ നിന്ന് അല്ല അതിനാൽ മധ്യരേഖയിൽ നിന്ന് നിങ്ങൾക്ക് പുറകിൽ താഴെയുള്ള ഒബ്ജക്റ്റ് ഉണ്ട് അത് കട്ട് വ്യൂ ഇല്ലാത്ത മെറ്റീരിയൽ പോലെ പുറത്തുവരും അത്തരം വസ്തുക്കളോ കാഴ്ചകളോ നമ്മൾ ഹാഫ് സെക്ഷൻ വ്യൂ എന്ന് വിളിക്കുന്നു ഇത് മുഴുവൻ വസ്തുവിനെയും ലളിതമാക്കുന്നു ഇതിനായി നമ്മൾ കാണിക്കേണ്ടതില്ല അത് ഈ വശത്തും സമമിതി ആയിരിക്കും അതിനാൽ ദ്വാരമുണ്ടെന്നും അത് അസമമായ തരത്തിലുള്ള ഒബ്ജക്റ്റ് ഇടത് വലത് സമമിതി എന്നിവയാണെന്നും ആരുമായും ആശയവിനിമയം നടത്താനുള്ള ഒരു എളുപ്പ മാർഗമാണിത് മാത്രമല്ല ഈ ഭാഗം കാണിക്കുന്നത് നല്ലതാണ് അതിനാൽ നമ്മൾ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞതുപോലെ ഈ പകുതിയിൽ മറഞ്ഞിരിക്കുന്ന ലൈനുകളൊന്നും കാണിക്കരുത് രണ്ടു പകുതി വിഭജിക്കുന്ന ഒരു മധ്യ ലൈൻ ഉണ്ടായിരിക്കണം ആരോ ദിശ കാണിക്കുന്നത് നിലനിർത്തുന്ന ഭാഗം ആണ് ഇനി നമുക്ക് മറ്റൊരു ഒബ്ജക്റ്റ് തിരഞ്ഞെടുക്കാം വീണ്ടും ഈ സമമിതി വസ്തു ഇവിടെയുണ്ട് ഈ ഭാഗം നിലനിർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ ഭാഗം നീക്കംചെയ്യുക ഞാൻ അത് നീക്കംചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഈ മെറ്റീരിയൽ ഉണ്ട് അതിനാൽ ഈ മെറ്റീരിയൽ ഈ ഹാചിഡ് ലൈനുകളാണ് അത് അവിടെയെല്ലാം വ്യാപിക്കുകയും ചെയ്യുന്നു അതിനാൽ നമ്മൾ അത് ഹാചിഡ് ലൈനുകളായി കാണിക്കുന്നു ഇപ്പോൾ ഇത് അതിലേക്ക് മാപ്പ് ചെയ്യുന്നു അതിനാൽ നിങ്ങൾക്ക് ഒരു മധ്യരേഖ ഉണ്ടായിരിക്കും ഈ മെറ്റീരിയൽ പ്രൊജക്റ്റുചെയ്യപ്പെടും അതിനാൽ നമുക്ക് മറഞ്ഞിരിക്കുന്ന ലൈനുകളൊന്നുമില്ല മാത്രമല്ല ഈ ഉരുണ്ട ദിശയിൽ സമമിതിയാണ് ഇപ്പോൾ ഓഫ്സെറ്റ് സെക്ഷൻ എന്ന് വിളിക്കുന്ന മറ്റൊരു വ്യൂ നമുക്ക് നോക്കാം ഒരു സ്ഥലത്ത് ഒരു സെക്ഷനൽ വ്യു പ്ലെയിൻ സ്ഥാപിക്കുന്നതിനുപകരം ആ യന്ത്ര ഘടകത്തിന്റെ ആന്തരിക ഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്നതിന് ഒബ്ജക്റ്റിലൂടെ കടന്നുപോകുന്ന ഒന്നിലധികം പ്ലെയിനുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഓഫ്സെറ്റ് സെക്ഷനൊപ്പം പോകുന്നു ഉദാഹരണത്തിന് നമ്മൾക്ക് ഈ ബ്രാക്കറ്റ് ഉണ്ട് ആ ദിശയിലേക്ക് ഒരു പ്ലെയിൻ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു വീണ്ടും ആ വസ്തുവിലൂടെ കടന്നുപോകുന്നു വീണ്ടും പോകുന്നു ഇത്തരത്തിലുള്ള ഒരു സെക്ഷൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ദിശയിൽ ആരോകളെ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ അതിനർത്ഥം അത് നിലനിർത്തുക ഈ ഭാഗം നീക്കംചെയ്യുക കട്ട് സെക്ഷനൽ കാഴ്ചയെ ഒരു ഐസോമെട്രിക് രീതിയിൽ നമുക്ക് ദൃശ്യവൽക്കരിക്കാം അതിനാൽ നമ്മൾ ടോപ് വ്യൂവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ഭാഗം നിലനിർത്തുക ഈ ഭാഗം നിലനിർത്തുക ഇത് നീക്കംചെയ്യുക അതിനാൽ ഐസോമെട്രിക് തലത്തിൽ ഈ സിയാൻ നിറം നീക്കംചെയ്യാനും നീല നിറം നിലനിർത്താനും നമ്മൾ ആഗ്രഹിക്കുന്നു കട്ട് സെക്ഷണൽ വ്യൂ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓഫ്സെറ്റ് കട്ട് സെക്ഷണൽ വ്യൂ നമ്മൾ കാണുന്നത് ഒരു പ്ലെയിൻ ഇതിലൂടെ കടന്നുപോകുന്നതിനാലാണ് അതിനാൽ ഈ ഭാഗം മെറ്റീരിയൽ ഘടകമായി കരുതപ്പെടുന്നു മാത്രമല്ല ഇവ പ്രൊജക്റ്റഡ് കാഴ്ചകളാണ് അതിനാൽ അത് നീക്കം ചെയ്തതിനുശേഷം നമുക്ക് അത് ആ ദിശയിൽ ദൃശ്യവൽക്കരിക്കേണ്ടതുണ്ട് അതിനാൽ ഈ ഭാഗങ്ങളെല്ലാം പ്രൊജക്റ്റ് ചെയ്യും നമ്മൾക്ക് അത്തരം പ്രൊജക്ഷൻ ഉള്ളപ്പോൾ നമ്മൾ അവിടെ ഒരു മെറ്റീരിയലും നീക്കംചെയ്തില്ല അതിനാൽ ഒരു മെറ്റീരിയലും നീക്കംചെയ്തിട്ടില്ല അത് ഒരു ദ്വാരത്തിന് തുല്യമാണ് ഈ ഭാഗത്ത് നമുക്ക് മെറ്റീരിയൽ ഉണ്ടാകും ഇപ്പോൾ വീണ്ടും നമുക്ക് അവിടെ ഒരു ദ്വാരം കടന്നുപോകും അതിനാൽ നമ്മൾക്ക് ഈ തുടർച്ചയായ ലൈനുകൾ മെറ്റീരിയൽ ഉണ്ട് അതിനാൽ മെറ്റീരിയൽ നിലവിലുണ്ട് പിന്നീട് വീണ്ടും ഇവിടെയെത്തുന്നു മെറ്റീരിയൽ നീക്കംചെയ്തിട്ടില്ല അതിനാൽ ആ വസ്തുവിൽ നാം കാണേണ്ട പ്രൊജക്റ്റഡ് വ്യൂ അതാണ് ഇപ്പോൾ എനിക്ക് ഈ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ എനിക്ക് ഈ മെഷീൻ ഘടകം ഉണ്ടെങ്കിൽ വ്യത്യസ്ത പ്ലെയിനുകളിൽ ഓഫ്സെറ്റ് സെക്ഷൻ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ ഉദാഹരണത്തിന് ഇതുപോലൊന്ന് നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് എടുക്കുക വീണ്ടും അതിലൂടെ കടന്നുപോകുന്നു അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ കാണപ്പെടുന്നു എനിക്ക് ഈ പാസ് പോലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ദിശയിൽ വരുന്നു ആ ഭാഗം നിലനിർത്തുക ആ ഭാഗം നിലനിർത്തുക ഇത് നീക്കംചെയ്യുക ഇത് എങ്ങനെ കാണപ്പെടുന്നു എനിക്ക് ആ രീതിയിൽ ഒരു പ്ലെയിൻ ഉണ്ടെങ്കിൽ അതിലൂടെ കടന്ന് വീണ്ടും അതിലൂടെ കടന്നുപോകുക ഇത് എങ്ങനെ കാണപ്പെടുന്നു ആ ഓഫ്സെറ്റ് സെക്ഷൻ ഊഹിക്കുക ഉദാഹരണത്തിന് വ്യത്യസ്ത പ്ലെയിനുകളിൽ നമ്മൾ ഓഫ്സെറ്റ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഒരു സെക്ഷൻ കടന്നുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ ദ്വാരത്തിന് മുകളിലൂടെ അത് പോകണം ആ ദിശയിലേക്ക് വരണം വീണ്ടും ആ ദ്വാരത്തിലൂടെ കടന്നുപോകുക രണ്ടാമത്തേത് അതിലൂടെ കടന്നുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ ദിശയിൽ വരുന്നു വീണ്ടും ആ ബിയിലൂടെ കടന്നുപോകുക അതുപോലെ ഈ രീതിയിൽ ഒരു സെക്ഷൻ കടന്നുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു വരുന്നു അത് എങ്ങനെ പോകുന്നു സെക്ഷനൽ വ്യു കാഴ്ചകളാണ് ഇവ Refer Slide Time 2757 അതിനാൽ നമുക്ക് പരിഹാരം നോക്കാം സെക്ഷൻ എ ഞാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ അതിനെ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ ഹാച്ചിംഗ് ഉള്ളടത്ത് നമ്മൾക്ക് ഈ മെറ്റീരിയൽ ഭാഗങ്ങൾ ഉണ്ടായിരിക്കും വലിയ ഭാഗങ്ങൾ നമ്മൾ നീക്കം ചെയ്യാത്ത സ്ഥലങ്ങൾ അത് ശൂന്യമായി ഇടുന്നു അതുപോലെ ബി സെക്ഷൻ നമുക്ക് ഇതിലൂടെ ഉണ്ടെങ്കിൽ അത് എങ്ങനെ കാണപ്പെടുന്നു ഇത് ഇതിനെ പ്രതിനിധീകരിക്കുന്നു ഇത് അതിനെ പ്രതിനിധീകരിക്കുന്നു സെക്ഷൻ സി ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന സെക്ഷനാണ് ചുവടെ ഒരു ദ്വാരമുണ്ട് കൂടാതെ നമ്മൾക്ക് ഒരു സ്ലോട്ട് പോലെയുള്ള ഒന്ന് ഉണ്ട് അത് എല്ലാ വഴികളിലൂടെയും പോകുന്നു നമ്മൾക്ക് അത് ഉണ്ട് ഈ ദ്വാരം നമ്മൾ ഈ രീതിയിൽ കാണിക്കാൻ പോകുന്നു അതിനാൽ നമ്മൾ ആ ദിശയിലേക്ക് നോക്കുമ്പോൾ സെക്ഷൻ ഇങ്ങനെയാണ് കാണപ്പെടുന്നത് ഇപ്പോൾ നമുക്ക് റിവോൾവ്ട് സെക്ഷൻ നോക്കാം ഉദാഹരണത്തിന് എനിക്ക് രണ്ട് മെറ്റീരിയലുകളുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒരുപക്ഷേ അത് ആടുന്ന ഒരു പെൻഡുലം പോലെയാണ് കൂടാതെ ഇവ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു സെക്ഷൻ അതിലൂടെ കടന്നുപോകാനും ആ വഴിയിലൂടെ കടന്നുപോകാനും നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ആ പ്ലെയിനിനൊപ്പം സ്ലൈസ് ചെയ്ത് അത് നീക്കംചെയ്ത് ഇത് നിലനിർത്തുക അത്തരം വസ്തുക്കൾ ഉള്ളപ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽ മുറിക്കുകയാണ് അതിനാൽ ഹാചിഡ് ലൈനുകളിലൂടെ ഇത് കാണിക്കുക ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് നമ്മൾ നീക്കംചെയ്യുന്നു പക്ഷേ പ്രൊജക്ഷൻ പ്ലേയിനിൽ അത് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ നമ്മൾ ചെയ്യുന്നത് ഈ മുഴുവൻ വസ്തുക്കളും നീക്കം ചെയ്തതിനുശേഷം നമ്മൾ അതിനെ എല്ലാ വഴികളിലൂടെയും കറക്കുന്നു കാരണം ഈ ദിശയിൽ പൂർണ്ണമായ വ്യൂ പോലുള്ള ഒന്ന് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഞാൻ ഒരു വശത്തെ വ്യുവിൽ നിന്ന് നേരെ നോക്കുകയാണെങ്കിൽ അത് ഈ ഭാഗം വരെ ആയിരിക്കും നമുക്ക് കാണാനാകുന്ന അവസ്ഥയിലായിരിക്കും പക്ഷേ അത് എത്ര വലുതാണെന്നോ ദൈർഘ്യമേറിയതാണെന്നോ ഉള്ള വിവരങ്ങൾ നമ്മൾക്ക് ഉണ്ടാകില്ല ആ ആവശ്യത്തിനായി നമ്മൾ ചെയ്യുന്നത് ഒരു ചുറ്റിക്കറങ്ങുന്ന സെക്ഷൻ ആണെന്ന് അറിയുന്നതിലൂടെയാണ് നമ്മൾ ഈ ഒബ്ജക്റ്റിനെ താഴേക്ക് തിരിക്കുന്നു ആ ഭാഗം കാണിക്കുന്നത് നീക്കംചെയ്യുക അതിനാൽ ആ ലൈൻ കറക്കിയതിന് ശേഷം നിങ്ങൾ ഈ പ്രൊജക്ഷൻ ലൈനുകൾ കാണുകയാണെങ്കിൽ ഈ ഭാഗം അതിനോട് യോജിക്കുന്നു ആ ഭാഗം കറങ്ങിയതിനുശേഷം അത് യോജിക്കുന്നുവെന്ന് കാണിക്കുന്നു അതിനാൽ ആ വസ്തുവിന്റെ യഥാർത്ഥ വിവരങ്ങൾ ആ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതിനേക്കാൾ എന്താണ് ശരിക്കും എന്ന് നമുക്ക് അറിവ് ഉണ്ടായിരിക്കും അതിനാൽ തുളച്ച ദ്വാര വലുപ്പവും മറ്റ് ആന്തരീക വിശദാംശങ്ങളും കാണാൻ നമ്മൾക്കാകും നമ്മൾക്ക് അത്തരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റിവോൾവ് സെക്ഷനുകൾ എന്ന് വിളിക്കുന്നു അതിനാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫുൾ സെക്ഷൻ വിശദാംശങ്ങൾ ഹാഫ് സെക്ഷൻ ഓഫ്സെറ്റ് സെക്ഷൻ റിവോൾവ് സെക്ഷൻ എന്നിവയെക്കുറിച്ച് പഠിച്ചു അടുത്ത ക്ലാസ്സിൽ റിബ് വെബ് സെക്ഷൻ അലൈൻഡ് സെക്ഷൻ ബ്രോക്കൻ ഔട്ട് നീക്കംചെയ്തത് മെഷീൻ ഘടകങ്ങൾ എന്നിവയെക്കുറിച്ച് നമ്മൾ പഠിക്കും